നമ്മൾ ഇത് പല രീതിയിൽ ചെയ്യും ഇത് വളരെ ലളിതമാണെന്നും നിങ്ങളിൽ പലർക്കും ഇതിൻറെ പരിഹാരം അറിയാം ആയിരിക്കുമെന്നും എനിക്കറിയാം പക്ഷേ നമ്മൾ ഇത് പലപ്പോഴും ഉപേക്ഷിക്കും കാരണം ഇത് വളരെ യാന്ത്രികമായി മാറും അതായത് ഒരു സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ അതിൽ എന്താണ് സംഭവിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ഇത് കാണിക്കുന്നതെന്നും നിങ്ങൾക്ക് പറയാൻ കഴിയണം ഒരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യത്തെ കുറിച്ചുള്ള മാത്തമാറ്റിക്സ് ക്ലാസ്സിൽ നിങ്ങൾ ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഇതിൽ ചിലവഴിക്കാൻ കാരണം അതാണ് ഇത്തരത്തിലുള്ള കാര്യത്തെ ഒരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യം എന്നറിയപ്പെടുന്നു എന്തുകൊണ്ടാണ് ഇതിനെ ആദ്യത്തെ ഓർഡർ എന്ന് വിളിക്കുന്നത് കാരണം ഡിഫറൻഷ്യൽ സമവാക്യം എന്നത് മറ്റൊന്നുമല്ല ഇടതുവശത്ത് വേരിയബിളും ഈ സാഹചര്യത്തിൽ Vc യും വേരിയബിളിന്റെ ഡെറിവേറ്റീവുകളും ഉണ്ട് നിങ്ങൾക്ക് ഉയർന്നതും കൂടുതൽ ഉയർന്നതുമായ ഓർഡറിൽ ഉള്ള ഡെറിവേറ്റീവുകൾ ഉണ്ടാകാം അതിനാൽ ഇടത് വശത്തുള്ള ഏറ്റവും ഉയർന്ന ഓർഡർ ഡെറിവേറ്റീവുകളാൽ ഓർഡർ നിർവചിക്കപ്പെടുന്നു വലതുവശത്ത് നിങ്ങൾ എല്ലാ സ്ഥിരാങ്കങ്ങളെയും ഒരുമിച്ച് എഴുതുന്നു അവ ഒരുതരത്തിൽ ഈ ഘടനയുടെ ഇൻപുട്ടുകൾ ആണ് വലതുഭാഗത്ത് പൂജ്യം ഉള്ള ഇതിനെ എന്താണ് പറയുന്നത് ഇതിനെ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ സമവാക്യം എന്നുപറയുന്നു പൊതുവേ നിങ്ങൾക്ക് വേരിയബിളുകളും വലതുവശത്ത് പൂജ്യവും മാത്രമേ ഉള്ളൂവെങ്കിൽ അതിനെ ഒരു ഹോമോജീനിയസ് സമവാക്യം എന്ന് വിളിക്കുന്നു ഞാൻ ഇതിനെ ഇപ്പോൾ പുനഃക്രമീകരിച്ചാൽ എനിക്ക് ഇങ്ങനെ ലഭിക്കുന്നു dVcdt 1RC Vc അതിനാൽ ഇപ്പോൾ നമുക്ക് ഈ ആവിഷ്കരണം ഉണ്ട് അതായത് വേരിയബിൾ Vc യുടെ ഡെറിവേറ്റീവ് എന്നത് ഒരു സ്ഥിരാങ്കം ആയ 1RC തവണ അതേ വേരിയബിളാണ് ഡിഫറെൻസിയേഷനെ കുറിച്ച് പഠിച്ച് അഞ്ച് നിമിഷം കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഡിഫറൻഷ്യൽ സമവാക്യത്തിൻറെ പരിഹാരം കണ്ടിട്ടുണ്ടാകാം കാരണം പലതരം ഡെറിവേറ്റീവുകളുടെ ഒരു പട്ടിക തന്നിട്ടുണ്ടാകും അതിൽ ഇടതുഭാഗത്തും വലതു ഭാഗത്തും ഒരേ പോലെ കാണുന്നതിൻറെ പരിഹാരം സാധാരണയായി അത് ഈ രൂപത്തിൽ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇതിൻറെ പരിഹാരം y സമം എന്താണ് അതിനാൽ ഒരു എക്സ്പോണൻഷ്യലിന്റെ ഡെറിവേറ്റീവ് ഒരു എക്സ്പോണൻഷ്യൽ ആണ് ഇത് വളരെ പ്രാധാന്യമുള്ളതാണ് അതിനാൽ ഇതിനുള്ള പരിഹാരം നിങ്ങളെല്ലാവരും എളുപ്പത്തിൽ അനുമാനിച്ചു ഇപ്പോൾ ഇവിടെ ഒരു സ്ഥിരാങ്കം ഉണ്ടായിരിക്കണം ഇത് exp tRC എന്ന രൂപത്തിൽ ആണുള്ളത് എന്നാൽ ഇവിടെ ഒരു സ്ഥിരാങ്കം ഉണ്ടായിരിക്കും കാരണം നിങ്ങൾ Vc യെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതും ഒരു പരിഹാരമാണ് ഈ പ്രത്യേക പദത്തെ പരാമർശിക്കാൻ ഞാൻ മറന്നുപോയി അതായത് ഇത് ഒരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യം മാത്രമല്ല ഇത് ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ സമവാക്യമാണ് കാരണം നമുക്ക് Vc യും Vc യുടെ ഡെറിവേറ്റീവുകളും ഉണ്ട് എന്നാൽ Vc യുടെ സ്ക്വയർ Vc യുടെ ഡെറിവേറ്റീവുകളുടെ സ്ക്വയർ മുതലായവ ഇല്ല അതിനാൽ ഇത് അർത്ഥമാക്കുന്നത് ഇതൊരു ലീനിയർ ഡിഫറൻഷ്യൽ സമവാക്യം ആയതിനാൽ നിങ്ങൾക്ക് Vc എന്ന ഒരു പ്രത്യേക പരിഹാരം ഉണ്ടെങ്കിൽ k മടങ്ങ് Vc യും ഒരു പരിഹാരമാണ് കാരണം ഈ പദങ്ങളെല്ലാം k കൊണ്ട് ഗുണിക്കപ്പെടും അതിനാൽ Vc എന്നത് ഈ രൂപത്തിൽ ആയിരിക്കും ഉണ്ടാവുക Vc Vc0 exp tRC അതിനാൽ 5 വോൾട്സ് പ്രാരംഭ വോൾട്ടേജ് ഉള്ള R C യുടെ ഉദാഹരണം എടുക്കട്ടെ പൊതുവെ ഇത് എല്ലായ്പ്പോഴും ശരിയാണ് കാരണം നിങ്ങൾ ലീനിയർ ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ ആണ് പരിഹരിക്കുന്നത് ലീനിയർ ഡിഫറൻഷ്യൽ സമവാക്യം പരിഹരിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ ചില ഘടകങ്ങളാൽ അവ്യക്തമായിരിക്കും കാരണം നിങ്ങൾ പരിഹാരത്തെ ഏതെങ്കിലും ഘടകം കൊണ്ട് ഗുണിച്ചാൽ അതും ഒരു പരിഹാരമാണ് അതിനാൽ ഈ ഘടകം എന്താണെന്ന് നിങ്ങൾ എങ്ങനെ പറയും അത് പ്രാരംഭ അവസ്ഥയെ അടിസ്ഥാനമാക്കിയാണ് ചെയ്യുന്നത് അതിനാൽ ഡിഫറൻഷ്യൽ സമവാക്യം പരിഹരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രാരംഭ അവസ്ഥകൾ നൽകണം പ്രാരംഭ അവസ്ഥയെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ഈ സ്ഥിരാങ്കം കണ്ടുപിടിക്കാൻ കഴിയും ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു സ്ഥിരാങ്കം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യമുണ്ടെങ്കിൽ അത്തരം രണ്ട് സ്ഥിരാങ്കങ്ങൾ ഉണ്ടാകും അതിനാൽ പ്രാരംഭ അവസ്ഥകളുടെ എണ്ണം എന്നത് ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ഓർഡറിന് സമം ആയിരിക്കണം ഈ സാഹചര്യത്തിൽ ഇത് വളരെ വ്യക്തമാണ് Vc0 യുടെ മൂല്യം എന്താണ് പൊതുവായി നിങ്ങൾക്ക് പരിഹാരം അറിയുന്ന t യുടെ അനുയോജ്യമായ ചില മൂല്യം ഉപയോഗിച്ചാണ് ഇത് കണ്ടെത്തുന്നത് ഈ സാഹചര്യത്തിൽ t 0 ആകുമ്പോൾ പരിഹാരം 5 വോൾട്സ് ആണെന്ന് നിങ്ങൾക്കറിയാം അത് അർത്ഥമാക്കുന്നത് Vc0 5 വോൾട്സ് എന്നാണ് t 0 എന്ന മൂല്യത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നത് അതിനാൽ ഇത് 5 വോൾട്ടിൽ നിന്ന് ആരംഭിച്ച് ഇങ്ങനെ പോകുന്നു ഈ വളവ് 5 exp tRC ആണ് ഇപ്പോൾ അതിനുമുമ്പ് എനിക്ക് ഇതിൻറെ പരിഹാരം കണ്ടുപിടിച്ച് പ്ലോട്ട് ചെയ്യണം എന്നില്ല കാരണം ചിലപ്പോൾ നമ്മൾ അത് ചിത്രം ഉപയോഗിച്ച് നേരത്തെ പരിഹരിച്ചു പിന്നെ എന്തുകൊണ്ടാണ് ഇത് ഈ രീതിയിൽ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നാം നമുക്ക് 5 വോൾട്സ് ഉണ്ട് പിന്നെ 5 വോൾട്സ് R കപ്പാസിറ്റർ വഴി ഉണ്ട് അത് വോൾട്ടേജ് കുറയ്ക്കും വോൾട്ടേജ് കുറയുന്നതിനാൽ കറണ്ട് കുറയും അതിനാൽ മാറ്റത്തിന്റെ നിരക്ക് കുറഞ്ഞു വരും അതിനാൽ മാറ്റത്തിന്റെ നിരക്ക് പ്രവർത്തനത്തിന് തന്നെ ആനുപാതികമാണ് എന്ന ഈ കാര്യം ആണ് നിങ്ങൾക്ക് ഈ എക്സ്പൊണൻഷ്യൽ നൽകുന്നത് ഈ സാഹചര്യത്തിൽ മാറ്റത്തിന്റെ നിരക്ക് ആനുപാതികമാണ് പക്ഷേ ഒരു നെഗറ്റീവ് ചിഹ്നം ഉണ്ട് അതുകൊണ്ട് എന്ത് സംഭവിക്കും എന്നാൽ അത് കുറയാൻ തുടങ്ങും പിന്നെ കുറയുന്നതിൻറെ നിരക്ക് കുറഞ്ഞു കുറഞ്ഞു വരും അവസാനം അത് പൂജ്യം ആകുന്നത് t അനന്തത എത്തുമ്പോൾ മാത്രം ആണ് ഇതിനെ അസംപാതരേഖ യിൽ ചില മൂല്യങ്ങളിൽ എത്തിച്ചേരുന്നു എന്നറിയപ്പെടുന്നു അതായത് t യുടെ ഏതെങ്കിലും പരിമിത മൂല്യത്തിന് അത് പൂജ്യം മൂല്യത്തിൽ എത്തില്ല പക്ഷേ t സമം അനന്തതയ്ക്ക് മാത്രം എത്തിച്ചേരും നിങ്ങൾ ഇത് രണ്ടും അറിഞ്ഞിരിക്കണം ഇതിന് എങ്ങനെ പരിഹാരം കാണണമെന്ന് അറിഞ്ഞിരിക്കണം എല്ലാത്തിനുമുപരി ഇത് വളരെ ലളിതമായ ഒരു സമവാക്യമാണ് അതേസമയം ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നും അറിഞ്ഞിരിക്കണം അത് നിങ്ങൾക്ക് സർക്യൂട്ടിൽ നിന്ന് മനസ്സിലാക്കാം അതായത് കപ്പാസിറ്ററിലെ കറണ്ട് കുറഞ്ഞുവരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇതിന്റെ പ്രാരംഭ ചരിവ് എത്രയാണ് എന്താണ് dVcdt വിദ്യാർഥി അത് Vc0RC exp tRC ആണ് അതിനാൽ നിങ്ങൾ വീണ്ടും t 0 ആകുമ്പോൾ ഉള്ള മൂല്യം നോക്കിയാൽ അത് Vc0RC ആണ് സർക്യൂട്ട് വെറുതെ നോക്കിയാൽ തന്നെ നമുക്ക് അത് പറയാൻ കഴിയും കാരണം നമുക്ക് കപ്പാസിറ്ററിന് കുറുകെ 5 വോൾട്സ് ഉണ്ട് അതുതന്നെയാണ് റെസിസ്റ്ററിന് കുറുകയും ഉള്ളത് അതിനാൽ കറണ്ട് 5 വോൾട്സ് R ആണ് കൂടാതെ വോൾട്ടേജിൻറെ മാറ്റത്തിന്റെ നിരക്ക് IC ആണ് അത് 5 വോൾട്സ് RC ആണ് അതാണ് കുറയുന്നതിന്റെ നിരക്ക് അത് അങ്ങനെ കുറഞ്ഞു വരും ഇവിടെയുള്ള ഈ അളവ് RC നമ്മൾ ഈ സർക്യൂട്ടിന്റെ കൂടുതൽ കണക്കുകൂട്ടലുകൾ നടത്തുമ്പോൾ അത് എല്ലായിടത്തും ദൃശ്യമാകും എന്ന് നമ്മൾ പിന്നീട് കാണും അതിനാൽ ഈ എക്സ്പോണൻഷ്യലിന് tസമയത്തിന്റെ മാനമുള്ള ചില അളവ് ഉണ്ടായിരിക്കും അതിനാൽ ഇത് സമയ സ്ഥിരാങ്കം എന്നറിയപ്പെടുന്നു ഇത് സംഭവിക്കുന്നതിനു കാരണം നമ്മൾ പലരും ഇതുപോലെ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ സമവാക്യം എഴുതുമ്പോൾ അവിടെ നിങ്ങൾക്ക് 1RC എന്ന ഗുണനസംഖ്യ ലഭിക്കുന്നു അതിനാലാണ് RC എക്സ്പോണൻഷ്യലിലേക്ക് പോകുന്നത് അത് ഈ ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ പരിഹാരത്തിന്റെ സ്വഭാവസവിശേഷതയാണ് അതാണ് സമയ സ്ഥിരാങ്കം സർക്യൂട്ടിന്റെ R C സമയ സ്ഥിരാങ്കം എന്ന പദം കേൾക്കുന്നത് വളരെ സാധാരണമാണ് ഇതാണ് അത് അതിനാൽ ഇത് കുറയുന്ന നിരക്കിനെ സ്വാധീനിക്കുന്നു സമയ സ്ഥിരാങ്കം വളരെ വലുതാണെങ്കിൽ എന്ത് സംഭവിക്കും ഈ വളവിന് എന്ത് സംഭവിക്കും വേഗത്തിൽ കുറയുമോ സാവധാനത്തിൽ കുറയുമോ വേഗത്തിൽ അല്ലേ അതിനാൽ നമുക്ക് R വളരെ വലുതാണെന്ന് പറയാം ഞാൻ അർത്ഥമാക്കിയത് R വളരെ വലുതാണെങ്കിൽ അല്ലെങ്കിൽ C വളരെ വലുതാണെങ്കിൽ സമയ സ്ഥിരാങ്കം വളരെ വലുതാകാം R വളരെ വലുതാണെങ്കിൽ അതിന്റെ അർത്ഥം എന്തെന്നാൽ കറണ്ട് വളരെ ചെറുതാണ് എന്നാണ് അതായത് പ്രാരംഭത്തിൽ അതേ 5 വോൾട്സ്ന് കറണ്ട് വളരെ ചെറുതായിരിക്കും അതിനാൽ അത് അർത്ഥമാക്കുന്നത് കപ്പാസിറ്റർ ഡിസ്ചാർജ് വളരെ കുറവായിരിക്കും എന്നാണ് എല്ലാത്തിനുമുപരി എന്താണ് സംഭവിക്കുന്നതെന്നാൽ തുടക്കത്തിൽ കപ്പാസിറ്ററിന് കുറുകെ കുറച്ചു ചാർജ് ഉണ്ട് അത് ഈ R വഴി ചോർന്ന് പൂജ്യത്തിലേക്ക് കുറയുന്നു ഇപ്പോൾ റെസിസ്റ്റൻസ് വളരെ വലുതാണെങ്കിൽ അത് അർത്ഥമാക്കുന്നത് യൂണിറ്റ് സമയത്തിൽ വളരെ കുറച്ചു ചാർജ് മാത്രമാണ് പുറത്തെടുക്കുന്നത് എന്നും അത് വളരെ സാവധാനം ആണ് ഡിസ്ചാർജ് ചെയ്യുന്നത് എന്നുമാണ് മറ്റൊരു വിധത്തിൽ കപ്പാസിറ്റർ വളരെ വലുതായാലും സമയ സ്ഥിരാങ്കം വളരെ വലുതായിരിക്കും അതിനർത്ഥം ഇതിന് വളരെയധികം ചാർജ് ഉണ്ടെന്നാണ് നിങ്ങൾ അതിൽ നിന്ന് ഒരു നിശ്ചിത അളവ് കറണ്ട് എടുത്താൽ വോൾട്ടേജിൻറെ കുറവ് വളരെ ചെറുതാണ് അതിനാൽ ഇവയെല്ലാം ബീജഗണിതപരമായി വളരെ എളുപ്പത്തിൽ ലഭിക്കാവുന്നവയുടെ അവബോധജന്യമായ വിശദീകരണങ്ങൾ മാത്രമാണ് കൂടാതെ ഈ കാര്യങ്ങൾ അവബോധപൂർവ്വം മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് ഇത് വളരെ വലിയ സമയ സ്ഥിരാങ്കം ഉള്ള ഒരു സർക്യൂട്ട് ആണ് വളരെ ചെറിയ RC ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ആണ് ലഭിക്കുക ഇത് വളരെ ചെറിയ സമയ സ്ഥിരാങ്കം ഉള്ള ഒരു സർക്യൂട്ട് ആണ് ഉപയോഗത്തിനെ ആശ്രയിച്ച് നമുക്ക് ചെറിയ സമയ സ്ഥിരാങ്കമോ വലിയ സമയ സ്ഥിരാങ്കമോ ഉണ്ടാവാം